നമസ്കാരം അവസാന ക്ലാസ്സിൽ നമ്മൾ കൺവല്യൂഷൻ ഇന്റഗ്രലിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഒപ്പം കൺവല്യൂഷൻ ഇന്റഗ്രൽ കണക്കാക്കാനുള്ള ഗ്രാഫിക്കൽ സമീപനം നമ്മൾ ആരംഭിച്ചു അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച തുടരും കൺവല്യൂഷൻ ഇന്റഗ്രലിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും നോക്കാം കൺവല്യൂഷൻ എന്നാൽ മടക്കുക ആണെന്ന് നമ്മൾ ചർച്ചചെയ്തു മടക്കുക എന്നതിനർത്ഥം കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ ഭാഗമായ ഒരു ഫംഗ്ഷന്റെ പ്രതിബിംബം നമ്മൾ എടുക്കുന്നു എന്നാണ് എന്നിട്ട് നിർവചിച്ചിരിക്കുന്ന കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് രണ്ട് ഫംഗ്ഷനുകളുടെ കൺവല്യൂഷൻ കൈവരിക്കുന്നു കൺവല്യൂഷൻ ഇന്റഗ്രലിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ് എന്നിവയുടെ കൺവല്യൂഷനെ എന്ന് പ്രതിനിധീകരിക്കുന്നുവെന്ന് നമ്മൾ സ്ഥാപിച്ചു അതിനാൽ ഈ രണ്ട് ഫംഗ്ഷനുകളും കൺവല്യൂഷൻ ചെയ്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഔട്ട്പുട്ട് y ആണെന്നും ഇത് നിർവചിക്കുന്നു ഇപ്പോൾ യുടെ ലാപ്ലേസ് പരിവർത്തനം ബന്ധപ്പെട്ട ലാപ്ലേസ് ട്രാൻസ്ഫോർമുകളെ ഗുണിച്ച് കണക്കുകൂട്ടാൻ കഴിയുമെന്ന് നമ്മൾ സ്ഥാപിച്ചു ഇതിനർത്ഥം ടൈം ഡൊമെയ്നിലെ കൺവല്യൂഷൻ എസ് ഡൊമെയ്നിലെ ഗുണനത്തിന് തുല്യമാണ് കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ മൂല്യനിർണ്ണയത്തിന്റെ ഗ്രാഫിക്കൽ സമീപനത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ആരംഭിച്ചു കൺവല്യൂഷൻ ഇന്റഗ്രൽ വിലയിരുത്തുന്നതിനുള്ള ഗ്രാഫിക്കൽ നടപടിക്രമത്തിൽ സാധാരണയായി നാല് ഘട്ടങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് നമ്മൾ പറഞ്ഞു ആ നാല് ഘട്ടങ്ങൾ ആദ്യം മടക്കുക അതിനർത്ഥം ഒരു ഫംഗ്ഷന്റെ ഓർഡിനേറ്റ് അക്ഷത്തിൽ പ്രതിബിംബം നമ്മൾ എടുക്കുന്നു രണ്ടാമത്തെ ഘട്ടം സ്ഥാനചലനമാണ് അവിടെ നമ്മൾ മാറ്റുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുന്നതിലൂടെ എന്ന ഫംഗ്ഷൻ ലഭിക്കും മൂന്നാമത്തേത് ഗുണനം എന്നാൽ യുടെയും മറ്റൊരു ഫംഗ്ഷൻ ആയ യുടെയും ഗുണനഫലം കണ്ടെത്തുന്നു തുടർന്ന് തന്നിരിക്കുന്ന സമയത്തിൽ ഉള്ള ഇന്റേഗ്രഷൻ നമുക്ക് ലഭിക്കും ഗുണനഫലത്തിന് കീഴിലുള്ള പ്രദേശ വിസ്തീർണ്ണം 0 λ t സമയത്തിന് നമ്മൾ കണക്കാക്കുന്നു തുടർന്ന് hx എന്നീ ഫംഗ്ഷനുകളുടെ കൺവല്യൂഷൻ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഈ സമീപനം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് രണ്ട് ഫംഗ്ഷനുകളുണ്ടെന്ന് വിചാരിക്കുക ഒന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഉം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന 2 സിഗ്നലുകളുടെ കൺവല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞ നാല് ഘട്ടങ്ങൾ പിന്തുടരുകയും ഇവയുടെ കൺവല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അതിനാൽ കൺവല്യൂഷൻ നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ ഘട്ടത്തിന്റെ ഭാഗമായി നമ്മൾ ആദ്യം മടക്കുന്നു അത് മടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കുന്നു എന്നിട്ട് നമ്മൾ t സമയം മാറ്റുകയും ഒടുവിൽ t യുടെ വ്യത്യസ്ത മൂല്യങ്ങളിൽ രണ്ട് ഫംഗ്ഷനുകളും ഗുണിക്കുകയും തുടർന്ന് ഓവർലാപ്പു ചെയ്യുന്ന പ്രദേശങ്ങളുടെ വിസ്തീർണ്ണം നിർണ്ണയിക്കാൻ ഇന്റഗ്രേറ്റും ചെയ്യും അതിനാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് മിറർ ഇമേജ് എടുക്കും അതിനാൽ യുടെ മിറർ ഇമേജ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും ഇപ്പോൾ ഇത് ആയി മാറും നിങ്ങൾ ഇപ്പോൾ അക്ഷമായി എടുക്കും ഇത് ഇപ്പോൾ ഈ ആകൃതിക്ക് പകരം മിറർ ഇമേജായി മാറിയിരിക്കുന്നു ആകൃതി ഇതുപോലെയായി എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ tസമയം മാറ്റും അതിനാൽ ഇപ്പോൾ നിങ്ങൾ അത് t സമയം മാറ്റിയാൽ അത് അക്ഷത്തിൽ മാറും അത് ഇപ്പോൾ മിറർ ഇമേജിൽ ഉണ്ടായിരുന്ന 1 മുതൽ 0 വരെ എന്നുള്ളതിൽ നിന്ന് മാറി t 1 മുതൽ t വരെ ആയിരിക്കും ഇപ്പോൾ അതിന് t 1 മുതൽ t വരെ പരിധി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ആയ ഈ പ്രത്യേക ഫംഗ്ഷൻ നീക്കാൻ ആരംഭിക്കുകയും നിങ്ങൾ യ്ക്ക് മുകളിലൂടെ മാറുകയും ചെയ്താൽ ഇവിടെ അത് ഇപ്പോൾ ആയി മാറും അതിനാൽ നമ്മൾ ഈ രണ്ട് സിഗ്നലുകളും ഒരേ അക്ഷത്തിൽ ഇടും അതിനാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ടി യുടെ വിവിധ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇന്റഗ്രൽ മാറ്റി നിങ്ങൾ ആരംഭിക്കും തുടർന്ന് t യുടെ വ്യത്യസ്ത മൂല്യങ്ങളുടെ കാര്യത്തിൽ ഇന്റഗ്രൽ നമ്മൾ കണ്ടെത്തും അതിനാൽ ഇടയിൽ നമുക്ക് നോക്കാം tയുടെ പരമാവധി മൂല്യം 1 ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ പോയിൻറ്ൽ 1 വരുമ്പോൾ അതിനർത്ഥം ഈ രണ്ട് ഫംഗ്ഷനുകൾക്കിടയിൽ ഓവർലാപ്പ് ഉണ്ടാകില്ല എന്നാണ് അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും നമ്മൾ പറയുന്നു അടുത്തതായി നമുക്ക് 1 t 2 നോക്കാം രണ്ട് സിഗ്നലുകൾ 1 നും t യ്ക്കും ഇടയിൽ ഓവർലാപ്പ് ചെയ്യും നിങ്ങൾ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഈ ഫംഗ്ഷൻ കൂടുതൽ മാറ്റുകയാണെങ്കിൽ 1 നും tയ്ക്കും ഇടയിലുള്ള കുറച്ച് സമയത്തേക്ക് ഈ ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യുന്നതായി കാണാം അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഈ രണ്ട് ഫംഗ്ഷന്റെയും കൺവല്യൂഷൻ നിർവചിക്കാം ഇപ്പോൾ നമ്മൾ ഈ സിഗ്നൽ കൂടുതൽ മാറ്റുകയും ഈ ദിശയിലേക്ക് രണ്ട് സിഗ്നലുകളുടെ കൺവല്യൂഷന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും 2 t 3 നിങ്ങൾ 2 t 3 ന് കാണുമ്പോൾ പൂർണ്ണമായും ഓവർലാപ്പുചെയ്യുന്നു ഓവർലാപ്പ് നും t യ്ക്കും ഇടയിൽ ആണ് കാരണം ഫംഗ്ഷൻ t 1 മുതൽ t വരെയാണ് അതിനാൽ എന്ത് സംഭവിക്കും അടുത്തതായി 3 t 4 സമയം എന്നാൽ ഈ ഫംഗ്ഷന്റെ ചില ഭാഗം x2നും x1നും ഇടയിൽ ഓവർലാപ്പുചെയ്യുമെന്നും ഈ സിഗ്നലുകൾ നും 3നും ഇടയിൽ ഓവർലാപ്പ് ചെയ്യുമെന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ സമയം t 4 ആകുമ്പോൾ സിഗ്നൽ ഓവർലാപ്പ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ കാണും അതിനാൽ നമുക്ക് t 4 ന് എന്ന് പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ എല്ലാ സമവാക്യങ്ങളും സംയോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൺവല്യൂഷൻ മനസ്സിലാക്കാം

ഇപ്പോൾ നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്താണ് അത് 1 വരെ 0 ആയിരിക്കും അതിനുശേഷം അത് ആയതിനാൽ ഇത് വർദ്ധിക്കുകയാണ് അതിനുശേഷം അത് 2 പരമാവധി മൂല്യമുള്ള ഒരു സ്ഥിര പദമാണ് തുടർന്ന് എന്ന മൂല്യത്തിൽ വീണ്ടും കുറയുന്നു എന്നിട്ട് ഒടുവിൽ 0 ആകുന്നു അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഫംഗ്ഷൻ ഉദാഹരണത്തിൽ നിർവചിച്ചിരിക്കുന്ന എന്നീ രണ്ട് ഫംഗ്ഷനുകളുടെ കൺവല്യൂഷൻ ആണ് സർക്യൂട്ട് വിശകലനത്തിൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് അടുത്ത ചോദ്യം അതിനാൽ സർക്യൂട്ട് പരിഹരിക്കുന്നതിൽ നിങ്ങൾ എങ്ങനെ കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉപയോഗപ്പെടുത്തും എന്നതിന് ഒരു ഉദാഹരണം നോക്കാം ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ആർഎൽ സർക്യൂട്ട് നമുക്ക് എടുക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എക്സൈറ്റേഷൻ കാരണം ഏത് t സമയത്തും ഉളള പ്രതികരണം കണ്ടെത്താൻ കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉപയോഗിക്കും ഇപ്പോൾ ഇത് 1 മൂല്യം വെച്ച് t 0 യിൽ പ്രയോഗിക്കുന്ന എക്സൈറ്റേഷൻ ആണ് അത് t 2ൽ 0 ആയി മാറുന്നു അതിനാൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന സാങ്കേതികത ഉപയോഗിക്കണം നമ്മൾ ആദ്യം സർക്യൂട്ടിന്റെ h യൂണിറ്റ് ഇംപൾസ് പ്രതികരണം ചൂണ്ടിക്കാണിക്കും അതിനാൽ യൂണിറ്റ് ഇംപൾസ് പ്രതികരണം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കറൻറ് ഡിവിഷൻ തത്ത്വം എസ് ഡൊമെയ്നിൽ പ്രയോഗിക്കുകയും ന്റെ മൂല്യം കണ്ടെത്തുകയും വേണം ആദ്യം ഈ സർക്യൂട്ടിനെ എസ് ഡൊമെയ്നിലേയ്ക്ക് പരിവർത്തനം ചെയ്യാം അതിനാൽ നിങ്ങൾ എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ കറൻറ് ഉറവിടം Is ആയിരിക്കും റെസിസ്റ്റൻസ് സമാനമായി തുടരും 1 എച്ച് ആയ ഇൻഡക്ടറിന്റെ മൂല്യം s ആയി മാറും ഈ സാഹചര്യത്തിൽ കറൻറ് ഉം ആണെങ്കിൽ ഈ പ്രത്യേക സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമുക്ക് ന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കാം I0 മറ്റൊന്നുമല്ല നിങ്ങൾ ഇവിടെ കറൻറ് ഡിവിഷൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂല്യം അതിനാൽ ഇത് കറൻറ് ഡിവിഷന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ലഭിക്കും തുടർന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തും ഇപ്പോൾ നിങ്ങൾ Hന്റെ വിപരീത ലാപ്ലേസ് പരിവർത്തനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് അടിസ്ഥാനപരമായി സർക്യൂട്ടിന്റെ ഇംപൾസ് പ്രതികരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന കറൻറ് സ്രോതസ്സ് നമുക്ക് നോക്കാം അതിനാൽ എന്ത് സംഭവിക്കും ഈ കാലയളവിൽ മാത്രം Is ഒന്നായിരിക്കും അല്ലാത്തപക്ഷം അത് പൂജ്യമായിരിക്കും ഇതിന് രണ്ട് സെക്കൻഡ് കാലവിളംബം ഉള്ളതിനാൽ നിങ്ങൾ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനുകളായി പരിവർത്തനം ചെയ്യുമ്പോൾ അത് പോലെ പ്രതിനിധീകരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് Is ഉണ്ട് സർക്യൂട്ടിന്റെ ഇംപൾസ് പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചു നമ്മൾ ചെയ്യേണ്ടത് കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ സഹായത്തോടെ ഏത് t സമയത്തിലുമുളള യുടെ മൂല്യം നമ്മൾ കണ്ടെത്തണം അതിനാൽ ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും Is ഉം h ഉം ഫംഗ്ഷനുകളുടെ കൺവല്യൂഷൻ നമ്മൾ എടുക്കും നമുക്ക് എന്ന് എഴുതാൻ കഴിയും അതിനാൽ യുടെ മൂല്യം നമ്മൾ ഇടും ശേഷം നമ്മൾ കണക്കാക്കിയ മൂല്യമായ കൊണ്ട് ഗുണിച്ചാൽ അങ്ങനെ കൺവല്യൂഷൻ ഇന്റഗ്രൽ പരിഹരിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രത്യേക ഇന്റഗ്രൽ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഇന്റഗ്രലിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം പൂജ്യത്തിനും രണ്ടിനും ഇടയിലുള്ള t സമയത്തേക്ക് ഈ പ്രത്യേക മൂല്യം പൂജ്യമായിരിക്കും കാരണം t രണ്ടിൽ കൂടുതലാകുമ്പോൾ ഇത് ഒന്നായിരിക്കും അതിനാൽ പൂജ്യം മുതൽ രണ്ട് വരെയുള്ള സമയം ഇത് പൂജ്യമായിരിക്കും അതിനാൽ ഒടുവിൽ നമുക്ക് അവശേഷിക്കുന്നത് ഇത് മാത്രമാണ് അത് ഒന്നും ഉം ആയിത്തീരും കാരണംഇത് പൂജ്യത്തേക്കാൾ വലിയ t സമയത്തിന് ആയതിനാൽ നിങ്ങൾ പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും സമയം പൂജ്യത്തിനും രണ്ടിനും ഇടയിൽ ആകുമ്പോൾ ആയിരിക്കും ഈ യുടെ മൂല്യം ഇപ്പോൾ രണ്ടിൽ കൂടുതലുള്ള tസമയത്തിന് ഇത് അങ്ങനെ നിലനിൽക്കും അതിനാൽ ഈ രണ്ട് പദങ്ങളും വേർതിരിക്കുമ്പോൾ നിങ്ങൾക്ക് യുടെ ഇന്റഗ്രൽ മുമ്പത്തെ ഘട്ടത്തിൽ നമ്മൾ കണക്കാക്കിയതല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് മൂല്യം ആയി ഇടാം എന്നിട്ട് അടുത്തത് uλ 2 ഫംഗ്ഷനാണ് ഇപ്പോൾ സമയം രണ്ട് മുതൽ t വരെയാകുമ്പോൾ ഇത് ഒന്നായിരിക്കുമെന്ന് നമുക്കറിയാം അതിനാൽ ഇന്റഗ്രൽ മൂല്യം മാറ്റും രണ്ടിൽ നിന്ന് tയിലേക്ക് ഈ മൂല്യം ഒന്നായി മാറും എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഇത് പരിഹരിച്ച് ലളിതമാക്കുകയാണെങ്കിൽ ഈ പ്രത്യേക മൂല്യം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഈ ഘട്ടത്തിൽ കറന്റ് ഗണ്യമായി ഉയരുകയാണ് അതിനാൽ ഈ പ്രത്യേക സിഗ്നലിൽ നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ പൂജ്യത്തിനും രണ്ടിനും ഇടയിലുള്ള സമയത്ത് അത് എക്സ്പോണൻഷൃൽ ആയി ഉയരുന്നു അതിനാൽ നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കും ഒപ്പം t രണ്ടിൽ കൂടുമ്പോൾ ഈ പദം സ്ഥിരമാണ് അതിനാൽ പ്രതികരണം ആയിരിക്കും t രണ്ടിനേക്കാൾ കൂടുമ്പോൾ അത് എക്സ്പോണൻഷൃൽ ആയി ക്ഷയിച്ചുകൊണ്ടിരിക്കും അതിനാൽ രണ്ടിൽ കൂടുതലുള്ള സമയത്തിന് ഞാൻ അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കും അതിനാൽ Is ഇൻപുട്ട് സിഗ്നലായി പ്രയോഗിക്കുമ്പോൾ ഇതായിരിക്കും കറൻറ് പ്രതികരണം കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് എങ്ങനെ സർക്യൂട്ടുകൾ പരിഹരിക്കാമെന്ന് ഇപ്പോൾ മനസിലാക്കാൻ കഴിയും ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് സ്ഥിരത എന്ന മറ്റൊരു ആശയത്തിലേക്ക് പോകാം ഇവിടെ സർക്യൂട്ടിന്റെ ഇംപൾസ് പ്രതികരണം പരിധിയിലാണെങ്കിൽ അത് സ്ഥിരതയുള്ളതാണ് അതിനർത്ഥം ആകുമ്പോൾ h പരിമിത മൂല്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു കൂടാതെ ആകുമ്പോൾ h പരിധിയില്ലാതെ വളരുകയാണെങ്കിൽ അത് അസ്ഥിരമാകും അതിനാൽ ഗണിതശാസ്ത്രപരമായി പരിധിക്കുവിധേയമായത് ആണെങ്കിൽ നിങ്ങൾക്ക് സർക്യൂട്ട് സ്ഥിരതയുള്ളതാണെന്ന് പറയാൻ കഴിയും ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇംപൾസ് പ്രതികരണത്തിന്റെ h ലാപ്ലേസ് പരിവർത്തനമായതിനാൽ ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിനാൽ ഈ പ്രത്യേക സമവാക്യം നിലനിൽക്കണമെങ്കിൽ ചില ആവശ്യകതകൾ പാലിക്കണം അതിനാൽ സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് എഴുതാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമാണ് എന്താണ് മാനദണ്ഡമെന്ന് നമുക്ക് നോക്കാം പാലിക്കേണ്ട സ്ഥിരത മാനദണ്ഡങ്ങൾ • ഇവിടെ 0യുടെ മൂല്യങ്ങളെ ന്റെ പൂജ്യങ്ങൾ എന്ന് വിളിക്കുന്നു കാരണം അവ ആക്കുന്നു • യുടെ മൂല്യങ്ങളെ കാരണമാകുന്നതിനാൽ ന്റെ ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നു • ന്റെ പൂജ്യങ്ങളും ധ്രുവങ്ങളും പലപ്പോഴും s തലത്തിൽ സ്ഥിതിചെയ്യുന്നു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ന്റെ പൂജ്യങ്ങളും ധ്രുവങ്ങളും s തലത്തിൽ സ്ഥിതിചെയ്യുന്നു അതിനാൽ സാധാരണയായി ധ്രുവങ്ങൾ ഇടത് പകുതി തലത്തിൽ ആയിരിക്കും പൂജ്യങ്ങൾ ഇവിടെയോ അവിടെയോ അല്ലെങ്കിൽ സാങ്കൽപ്പിക അക്ഷത്തിലോ ആയിരിക്കാം ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെ ആണ് മാനദണ്ഡങ്ങൾ സർക്യൂട്ട് സ്ഥിരത കൈവരിക്കുന്നതിന് രണ്ട് അടിസ്ഥാന ആവശ്യകതകളുണ്ട് ആദ്യം ന്റെ ഡിഗ്രി ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ ഉള്ള ചില മൂല്യങ്ങളുടെ ഒരു പദപ്രയോഗം ആണിത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയും റെസിഡ്യുലിന്റെ ഡിഗ്രിയും ചേർന്നതായിരിക്കും ഇവിടെ റെസിഡ്യുലിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ കുറവായിരിക്കും അതിനാൽ നിങ്ങൾ വിഭജിച്ച് ലളിതമാക്കുമ്പോൾ നിങ്ങൾക്ക് ന്റെ പദപ്രയോഗം കൂടാതെ ചില റെസിഡ്യുലിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഹരിച്ചതും ആയ പദം ഇവയുടെ തുകയായി പ്രതിനിധീകരിക്കാം ദൈർഘ്യമേറിയ ഡിവിഷന്റെ ശിഷ്ടം ന്റെ ഡിഗ്രി നേക്കാൾ കുറവുള്ള ഈ പ്രത്യേക പദപ്രയോഗം നിങ്ങൾ കാണുകയാണെങ്കിൽ t അനന്തതയിലേക്ക് എത്തുമ്പോൾ ഇത് സ്ഥിരത കൈവരിക്കും എന്നാൽ ഈ പ്രത്യേക ഭാഗം കണ്ടാൽ നിങ്ങൾ sന്റെ മൂല്യം അനന്തതയിലാക്കുമ്പോൾ ഈ ഭാഗം നെ അനന്തതയിലേക്ക് നയിക്കും ഇക്കാരണത്താൽ അസ്ഥിരമായിരിക്കും അതിനാൽ സിസ്റ്റത്തിന് സ്ഥിരത കൈവരിക്കണമെങ്കിൽ ഉളള ആദ്യത്തെ വ്യവസ്ഥ ഡിഗ്രി ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം അതിനാൽ നിങ്ങൾ ന്റെ വിപരീതം എടുക്കുമ്പോൾ അത് സ്ഥിരത അവസ്ഥ പരിധി പാലിക്കുകയില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര അളവായി ന്യൂമറേറ്ററിൽ s ഉള്ളപ്പോൾ ഇത് നെ പരിമിതപ്പെടുത്താൻ അനുവദിക്കില്ല t അനന്തതയിലേക്ക് പോകുമ്പോൾ Hന്റെ വിപരീത ലാപ്ലേസിനെ പരിമിതപ്പെടുത്താൻ അനുവദിക്കില്ല അതുകൊണ്ട് ന്റെ ഡിഗ്രി നേക്കാൾ കുറവായിരിക്കണം ഇപ്പോൾ രണ്ടാമത്തെ വ്യവസ്ഥ ഡിനോമിനേറ്റർ പൂജ്യത്തിന് തുല്യമായ സമവാക്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും അതായത് Hന്റെ എല്ലാ ധ്രുവങ്ങൾക്കും നെഗറ്റീവ് വാസ്തവികസംഖ്യാ ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് അതിനർത്ഥം എല്ലാ ധ്രുവങ്ങളും തലത്തിന്റെ ഇടത് പകുതിയിൽ ആയിരിക്കണം എന്നാണ് നിങ്ങൾ തലം കണ്ടാൽ ധ്രുവങ്ങൾ ഇടത് പകുതിയിൽ മാത്രം കിടക്കണം അതിനാൽ സർക്യൂട്ടിന്റെ സ്ഥിരത കൈവരിക്കേണ്ടതിന്റെ ആവശ്യകതയായി നമ്മൾ പാലിക്കേണ്ട രണ്ട് വ്യവസ്ഥകളാണിത് ഈ രൂപത്തിൽ H പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം അതിനാൽ നിങ്ങൾ വിപരീത ലാപ്ലേസ് പരിവർത്തനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക സമവാക്യം നിരീക്ഷിക്കുകയാണെങ്കിൽ ഓരോ പോൾ piയുടെയും മൂല്യം പോസിറ്റീവ് ആയിരിക്കണമെന്ന് നിങ്ങൾ കാണും ഇത് ഇടത് പകുതി തലത്തിൽ ആയ ധ്രുവമാക്കി മാറ്റും ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ പ്രത്യേക പദപ്രയോഗം ആയിരിക്കുമെന്ന് നിങ്ങൾ കാണും അത് എക്സ്പോണൻഷൃലായി ക്ഷയിച്ചുകൊണ്ടിരിക്കും അത് പരിധിയിലാണെന്ന് ഉറപ്പാക്കുന്നു അതായത് സമയം വർദ്ധിക്കുന്നതിനൊപ്പം ഇത് ഒരു പ്രത്യേക മൂല്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ അസ്ഥിരമായ സർക്യൂട്ടിൽ അത് ഒരിക്കലും അതിന്റെ സ്ഥിരസ്ഥിതി മൂല്യത്തിലേക്ക് എത്തുകയില്ല കാരണം ക്ഷണികമായ പ്രതികരണം പൂജ്യമായി ക്ഷയിക്കില്ല p പോസിറ്റീവ് ആകുന്നതിനുപകരം p നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സ്പോണൻഷൃലായി ഉയരുന്ന പദമാണ് ഇത് ഒരിക്കലും അതിന്റെ സ്ഥിരമായ അവസ്ഥയിലെത്തുകയില്ല ഇത് എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കുകയല്ല മറിച്ച് എക്സ്പോണൻഷ്യൽ ആയി ഉയരുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ ക്ഷണികമായ പ്രതികരണം പൂജ്യമായി ക്ഷയിക്കില്ല അതിനാൽ സ്ഥിരസ്ഥിതി വിശകലനം സ്ഥിരതയുള്ള സർക്യൂട്ടുകൾക്ക് മാത്രമേ ബാധകമാകൂ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുമായി എങ്ങനെ പരസ്പരബന്ധം വരുത്താം എന്ന് നോക്കാം ആർഎൽസിയും സ്വതന്ത്ര സ്രോതസ്സുകളും സർക്യൂട്ടിന്റെ ഭാഗമാണെങ്കിൽ ഈ സിസ്റ്റം അസ്ഥിരമാകാൻ കഴിയില്ല കാരണം ഇത് അങ്ങനെയാണെങ്കിൽ അസ്ഥിരമാണെങ്കിൽ സ്രോതസ്സുകൾ പൂജ്യമായി സജ്ജമാക്കുമ്പോൾ ഏതെങ്കിലും ബ്രാഞ്ച് കറന്റോ വോൾട്ടേജോ അനിശ്ചിതമായി വളരും ഇത് ആർഎൽസി ഘടകങ്ങളുള്ള സർക്യൂട്ടുകളിൽ പ്രായോഗികമായി സംഭവിക്കുന്നില്ല കാരണം പ്രതികരണം ക്ഷയിക്കാനുള്ള ഉത്തരവാദിത്തം Rനാണ് അതിനാൽ നിഷ്ക്രിയ മൂലകങ്ങൾക്ക് അത്തരം അനിശ്ചിതകാല വളർച്ച സൃഷ്ടിക്കാൻ കഴിയില്ല അതിനാൽനിഷ്ക്രിയ സർക്യൂട്ടുകൾ സ്ഥിരതയുള്ളവയോ അല്ലെങ്കിൽ വാസ്തവികസംഖ്യാ ഭാഗങ്ങളുള്ള ധ്രുവങ്ങൾ ഉള്ളതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഈ ഉദാഹരണം കാണുമ്പോൾ ചർച്ചചെയ്യുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H VoVs ന് തുല്യമാണ് 9നിങ്ങൾ അനുപാതം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതിനാൽ ഡിനോമിനേറ്റർ പദപ്രയോഗം ആയിരിക്കും ഇപ്പോൾ ഇത് സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്വഭാവ സമവാക്യത്തിന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും ഈ പ്രത്യേക സർക്യൂട്ടിന് രണ്ട് ധ്രുവങ്ങളുണ്ടെന്നും അവയുടെ മൂല്യം ഇവിടെ എന്നിങ്ങനെയാണെന്നും സീരീസ് ആർഎൽസി സർക്യൂട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകം കണ്ടതാണ് അതിനാൽ ഈ പദപ്രയോഗം r l c എന്നിവ പൂജ്യത്തേക്കാൾ വലുതാണെങ്കിൽ രണ്ട് ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും തലത്തിന്റെ ഇടത് ഭാഗത്ത് കിടക്കും സർക്യൂട്ട് എല്ലായ്പ്പോഴും സ്ഥിരതയുള്ളതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ R 0 കാണുമ്പോൾ α 0 ആകും സർക്യൂട്ട് ഓസിലേറ്ററി ആയി മാറുന്നു അത് സാധ്യമാണ് പക്ഷേ അത് പ്രായോഗികമായി സംഭവിക്കുന്നില്ല കാരണം r ഒരിക്കലും പൂജ്യമാകില്ല നിങ്ങൾക്ക് R 0 α 0 ഉള്ളപ്പോൾ ഈ നിഷ്ക്രിയ സർക്യൂട്ടുകൾക്ക് പൂജ്യം വാസ്തവികസംഖ്യാ ഭാഗങ്ങളുള്ള ധ്രുവങ്ങളുണ്ടാകും അതിനാൽ നമ്മുടെ ധ്രുവങ്ങൾ സാങ്കൽപ്പിക അക്ഷത്തിൽ കിടക്കുമ്പോൾ വാസ്തവികസംഖ്യാ ഭാഗം പൂജ്യമാണെന്നും പ്രതികരണം ആന്ദോളനവും ആകും അതിനാൽ ഇത നമ്മളുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അടുത്ത സെഷനിൽ ഈ പ്രത്യേക വീക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചയും നമ്മൾ തുടരും